നമുക്ക് തിരിച്ചു വരാം അതുകൊണ്ടാണ് ഈ 2 സമവാക്യങ്ങൾ നിങ്ങൾക്ക് മാട്രിക്സ് രൂപത്തിൽ എഴുതാം അതിനാൽ ഇത് 1 R1 1 R 2 ആണ് ഇത് 1 R2 ഇവിടെ ഇതു 1 R21 R 2 1 R2 v 1 v 2 4 6ന് തുല്യമാണ് അതിനാൽ ഈ 2 ചോദ്യങ്ങൾക്കും ശരിയായി പരിഹരിക്കാൻ കഴിയും പക്ഷേ ഇവിടെ ഇത് 2 മാത്രമാണ് അതുകൊണ്ടാണ് നിങ്ങൾ 2 അജ്ഞാതമെന്ന് മാത്രം വിളിക്കുന്നത് അതിനാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള മാട്രിക്സ് പ്രവർത്തനം എളുപ്പത്തിൽ പരിഹരിക്കാനാകും നിങ്ങൾക്ക് ഒന്നിനുപുറകെ ഒന്നായി പകരം വയ്ക്കാനും നിങ്ങൾക്ക് അത് എളുപ്പത്തിൽ പരിഹരിക്കാനും കഴിയും എന്നാൽ അത് 2 2 4 അല്ലെങ്കിൽ 5 ൽ കൂടുതലാണെങ്കിൽ അത് കണക്കാക്കുന്ന എന്തെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങൾ ചില ടെക്നിക് പിന്തുടരണം അതിനാൽ ക്രാമറിന്റെ നിയമംCramer's rule ഇവിടെ ചർച്ചചെയ്യും ഒരു ചെറിയ ടെക്നിക് ഞാൻ നിങ്ങളെ കാണിക്കും അത് 2 മുതൽ 2 മാട്രിക്സ് വരെ മാത്രം സാധുതയുള്ളതാണ് അതിനാൽ ഇത് ഒരേസമയം സമവാക്യങ്ങളും ക്രാമറിന്റെ നിയമവുമാണ് അതിനാൽ സർക്യൂട്ട് വിശകലനത്തിനായി കുറച്ച് ആശയം ആവശ്യമാണെന്ന് ഞാൻ കരുതി അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ചെറിയ ഗണിതശാസ്ത്രത്തിൽ എടുത്തത് അതിനാൽ സമകാലിക ഇക്വഷനിൽ നിന്ന് വ്യത്യസ്തമായി കണക്കാക്കിയാൽ സമവാക്യം 1 1 x 1 ആണ് ഞാൻ ഇത് ഇതുപോലെയാക്കുന്നു ഇത് 1 1 x 1 1 1 x 2 വരെ 1 xn b 1 എന്ന് പറയാൻ തുല്യമാണ് ഈ ഇക്വഷൻ 1 ഒരു ഇക്വഷനാണ് അതുപോലെ ഒരു a 21 x 1 a 2 2 x 2 a 2 n xn ഇത് ab 2 ആണ് അതുപോലെ അവസാനത്തേത് an 1 x 1 an 2 x 2 ക്ഷമിക്കണം an 1 x 1 an 2 x 2 മുതൽ ann വരെ xn ഇത് ഒരു bn ആണ് അതിനാൽ നിങ്ങൾക്ക് ഒരേസമയം ഇക്വഷനുകളുടെ എണ്ണം പോലും ഉണ്ട് കൂടാതെ bn നിങ്ങൾ എഴുതുക നിങ്ങൾ ഈ ഇക്വഷൻ മാട്രിക്സ് രൂപത്തിൽ ഇടുകയാണെങ്കിൽ ഇത് ഇതുപോലെയാക്കാം a 1 1 ഇത് ഒരു മാട്രിക്സ് ആൺ ഇത് a 1 1 പിന്നെ a 1 2 a 1n ഇവയെല്ലാം മാട്രിക്സ് അധ്യായത്തിൽ തന്നെ നിങ്ങൾ ഹയർ സെക്കൻഡറിയിൽ പഠിച്ചു ഇതൊരു മാട്രിക്സ് ആണ് ഇത് x 1 x 2 xn ആണ് അതിനാൽ a a മാട്രിക്സ് n മാട്രിക്സിലേക്ക് nആണ് ഈ x യഥാർത്ഥത്തിൽ 1 വെക്റ്റർ ആൺ വലതുവശത്ത് ഈ b 1 b 2 bn ഇത് യഥാർത്ഥത്തിൽ b അല്ലെങ്കിൽ നിങ്ങൾക്ക് 1 വെക്റ്റർ എന്ന് വിളിക്കാം ഇത് യഥാർത്ഥത്തിൽ 10 എന്ന ഇക്വഷനായി നൽകിയിരിക്കുന്നു ഈ ഇക്വഷൻ AX B എന്നതിന് തുല്യമാണെന്ന് എഴുതാം അല്ലെങ്കിൽ x നേരിട്ട് പരിഹരിക്കുന്നതിന് തുല്യമാണ് ഒരു വിപരീതo നിലവിലുണ്ടെങ്കിൽ x ഒരു വിപരീത b തുല്യമാണ് ഇപ്പോൾ ഇത് യ ഥാർ ത്ഥ ത്തി ൽ A X B യ്ക്ക് തു ല്യ മാണ് ഇ പ്പോ ൾ a ഒ രു മാ ട്രിക്സി ന് തുല്യമാണ് a 1 1 a 1 2 a 1n a21 a 2 2 a 2n പിന്നീട് ഒരു പദത്തിൽ an 1 an 2 ann ആൺ അതുപോലെ X xn വരെ x 1 x 2 നും B എന്നത് b 1 b 2 bn നും തുല്യമാണ് അതിനാൽ n മാട്രിക്സിലേക്ക് ഒരു ചതുര മാട്രിക്സ് n ആണ് ഇവിടെ x b എന്നിവ നിര വെക്റ്ററാണ് അത് 1 മെട്രിക്സിലേക്ക് n ആണ് അതിനാൽ ഇത് യഥാർത്ഥത്തിൽ n 1 n 2 നിരയാണ് 1n നെ 1 മാട്രിക്സിലേക്ക് എഴുതാൻ കഴിയും ഇക്വഷൻ പരിഹരിക്കുന്നതിന് നിരവധി മാർഗ്ഗങ്ങളുണ്ട് ഈ മുകളിലുള്ള AX ഇക്വഷൻ B ക്ക് തുല്യമാണ് അതാണ് ബാക് സുബ്സ്റ്റിട്യൂഷൻ ഗാഷ്യൻ എലിമിനേഷൻ മാട്രിക്സ് ഇൻവെർഷൻ ക്രമേഴ്സ് റൂൾ പിന്നെ ന്യൂമെറിക്കൽ അനാലിസിസ് അത്തരം കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് ധാരാളം മാർഗ്ഗങ്ങളുണ്ടാകാം പക്ഷേ ഇത് കമ്പ്യൂട്ടേഷണലി കാര്യക്ഷമമായി പ്രയോഗിക്കേണ്ടതാണ് പക്ഷേ എന്തായാലും കമ്പ്യൂട്ടർ കോഡോ മറ്റോ എഴുതുകയില്ല അതിനാൽ ക്ലാസ് റൂമിൽ പരിഹരിക്കാവുന്ന കാര്യങ്ങൾ അതനുസരിച്ച് ഒരു ക്ലാസ് റൂം വ്യായാമമായി ക്ലാസ് മുറിയിൽ പരിഹരിക്കാനാകും ഇത് എങ്ങനെ വേഗത്തിൽ പരിഹരിക്കാമെന്ന് കാണാം ഒരേസമയം ഇക്വഷനുകൾ പരിഹരിക്കുന്നതിന് ക്രാമറിന്റെ നിയമം വാസ്തവത്തിൽ ഉപയോഗിക്കാം ക്രാമറിന്റെ നിയമമനുസരിച്ച് 2 10 എന്ന ഇക്വഷന്റെ പരിഹാരം AX B യ്ക്ക് തുല്യമാണ് അതായത് ഇക്വഷൻ AX ആണെങ്കിൽ അത് B ന് തുല്യമാണ് നിങ്ങൾ ഈ ഇക്വഷൻ പരിഹരിക്കുമ്പോൾ അതിനാൽ ഇത് എളുപ്പത്തിൽ പരിഹരിക്കാനാകും x 1 ഡെൽറ്റ 1 ന് തുല്യമാണ് ഡെൽറ്റ വഴി ഡെൽറ്റ 1 അല്ലെങ്കിൽ ഡെൽറ്റ എന്താണെന്ന് കാണും x 2 ഡെൽറ്റ 2 ന് ഡെൽറ്റയ്ക്കും xn ഡെൽറ്റ n ന് ഡെൽറ്റയ്ക്കും തുല്യമാണ് ഡെൽറ്റ 1 ഡെൽറ്റ 2 വരെ ഡെൽറ്റ n വരെ കണ്ടെത്തണം അതിനാൽ ഡെൽറ്റകളാണ് നിർണ്ണയിക്കുന്നത് പക്ഷേ ഇത് എങ്ങനെ വേഗത്തിൽ പരിഹരിക്കാമെന്ന് ചില നടപടിക്രമങ്ങൾ അറിഞ്ഞിരിക്കണം ഈ സാഹചര്യത്തിൽ ആ ഡെൽറ്റ എന്തുചെയ്യും എന്നത് നിർണ്ണായകമാണ് തുടർന്ന് ഡെൽറ്റ 1 ഡെൽറ്റ 2 എല്ലാ ഡെൽറ്റ n യും നിർണ്ണയിക്കുന്നു പക്ഷേ ഇത് എങ്ങനെ നേടാം ഈ ഡെൽറ്റ നൽകിയ ഡിറ്റർമിനന്റുകൾ ഡെൽറ്റകളാണെങ്കിൽ ഇത് അടിസ്ഥാനപരമായി ഇത് a 1 1 a 1 2 a 1n a 21 a 2 2 a 2n an 1 an 2 ann എന്നിവയാണ് ഇതാണ് നിർണ്ണായക ഡെൽറ്റ ഇപ്പോൾ ഡെൽറ്റ 1 ഡെൽറ്റ 2 ന് നിങ്ങൾ എന്തുചെയ്യും ഡെൽറ്റ 1 നായി നിങ്ങൾക്ക് എന്തുചെയ്യാനാകുമെന്ന് നോക്കൂ നിങ്ങൾ x 1 കണ്ടെത്തണം x 1 ഡെൽറ്റ 1 ഡെൽറ്റയ്ക്ക് തുല്യമാണ് x 2 ഡെൽറ്റ 2 ഡെൽറ്റയ്ക്കും xn ഡെൽറ്റ n ഡെൽറ്റയ്ക്കും തുല്യമാണ് നിങ്ങൾ എങ്ങനെ ചെയ്യും നിങ്ങൾ ആദ്യ നിര എടുത്താൽ ഇത് ആദ്യത്തേതാണ് ഈ ആദ്യ നിരയ്ക്ക് b 1 b 2 ഉം bn ഉം മാത്രമേ മാറ്റിസ്ഥാപിക്കാൻ കഴിയൂ ബാക്കിയുള്ളവ അതേപടി തുടരും നിർണ്ണയിക്കുന്നതെന്തും ഡെൽറ്റ ആയിരിക്കും അതുകൊണ്ട് b 1 b 2 bn ബാക്കിയുള്ളവ ഇവിടെ നിന്നുള്ള എല്ലാ ഘടകങ്ങളും തുല്യമാണ് ഡെൽറ്റ 1 നായി നിങ്ങൾ a 1 1 a 21 ന്റെ ആദ്യ നിരയെ b 1 b 2 bn ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കും അത് മാറ്റി ഡെൽറ്റ 1 കണക്കാക്കുക അതുപോലെ ഡെൽറ്റ 1 ലഭിക്കും സമാനമായി ഡെൽറ്റ 2 ഡെൽറ്റ 2 ന്റെ കാര്യത്തിൽ നിങ്ങൾ രണ്ടാമത്തെ നിരയെ b 1 b 2 എന്ന് മാറ്റിസ്ഥാപിക്കുക അതായതു ഈ മാട്രിക്സിന്റെ രണ്ടാമത്തെ നിരയെ ഇത് രണ്ടാമത്തെ നിരയാണ് ഇത് നിങ്ങൾ b 1 b 2 ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുന്നു എല്ലാ ഘടകങ്ങളും സമാനമായി തുടരും നിങ്ങൾ എല്ലാം മാറ്റിസ്ഥാപിക്കുമ്പോൾ നിങ്ങൾക്ക് ഡെൽറ്റ 2 ലഭിക്കും അതുപോലെ ഡെൽറ്റ n ന് നിങ്ങൾ അവസാനമായി മാറ്റിസ്ഥാപിക്കുന്നത് b 1 b 2 bn എന്നിവയാൽ ബാക്കി മൂലകം അതേപടി തുടരും നിങ്ങൾക്ക് ഡെൽറ്റ n ഈ രീതിയിൽ ലഭിക്കും ഡെൽറ്റ 1 ഡെൽറ്റ 2 എല്ലാം നിർണ്ണയിക്കാവുന്നവയും കണക്കാക്കാം ഇതിനുള്ള നേരിട്ടുള്ള പരിഹാരം നിങ്ങൾക്ക് ഡെൽറ്റ 1 ഡെൽറ്റ 2 ഡെൽറ്റ n വരെ അറിയാം തുടർന്ന് x 1 ഡെൽറ്റ 1 ഡെൽറ്റയ്ക്ക് തുല്യമാണ് x 2 ഡെൽറ്റ 2 ഡെൽറ്റയ്ക്ക് തുല്യമാണ് xl വരെയുള്ള ഡെൽറ്റ ഡെൽറ്റ n ഡെൽറ്റയ്ക്ക് തുല്യമാണ് അതിനാൽ ഈ രീതിയിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയും അത് ഒരു നിരയെ മാറ്റി പകരം വയ്ക്കുക ഇപ്പോൾ ഇത് എങ്ങനെ നിർമ്മിക്കാമെന്നതാണ് ചോദ്യം ഇപ്പോൾ ഡെൽറ്റ മാട്രിക്സിന്റെ നിർണ്ണായകമാണെങ്കിൽ ഡെൽറ്റ k മാട്രിക്സിന്റെ എ ബി നിരയുടെ പകരമായി രൂപംകൊണ്ട മാട്രിക്സിന്റെ നിർണ്ണായകമാണ് അതിനാൽ ഡെൽറ്റ 0 ന് തുല്യമല്ലാത്തപ്പോൾ മാത്രമേ ക്രാമറിന്റെ നിയമം ബാധകമാകൂ എന്ന് വ്യക്തമാണ് കാരണം ഇത് 0 കൊണ്ട് ഹരിക്കപ്പെടും അതിനാൽ സാധ്യമല്ല ഡെൽറ്റ 0 ന് തുല്യമാകുമ്പോൾ ഇക്വഷനുകളുടെ ഗണത്തിന് അദ്വിതീയമായ പരിഹാരമില്ലകാരണം ഇക്വഷനുകൾ രേഖീയമായി ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ഇക്വഷൻ അദ്വിതീയമായ പരിഹാരമില്ലെന്ന് നിങ്ങൾ കണ്ടെത്തും ഇക്വഷൻസ് ലീനിയർലി ഡിപെൻഡെന്റ് ആണ് അതിനാൽ ആദ്യ വരിയിൽ വികസിപ്പിച്ചുകൊണ്ട് ഡിറ്റർമിനന്റ് ഡെൽറ്റയുടെ മൂല്യം ലഭിക്കും അത് എങ്ങനെ ചെയ്യും ഞാൻ a 1 1 a 1 2 a 1 2a 1n വരെ പിന്നെ a 21 a 2 2 a 2 2 a 2n വരെ അതുപോലെ a 2 1 a 2 2 a 2 2 a 2n വരെ തുടർന്ന് an 1 an 2 an 2 ann വരെ ഇ പ്പോൾ നി ങ്ങ ൾ ഇതു പോലെ എ ഴു തു കയാ ണെ ങ്കി ൽ നി ങ്ങ ൾ ഈ കാര്യം എഴുതണം അതിനാൽ ഈ ആദ്യത്തേത് a11 M 1 1 എഴുതുന്നു അടിസ്ഥാനപരമായി ആദ്യ വരിയിൽ വികസിച്ച് ലഭിക്കും അതിനർത്ഥം ആദ്യത്തേത് വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ നിര തിരിച്ചുള്ളവയും നൽകാം അതിനാൽ ആ സാഹചര്യത്തിൽ a 1 1 M 1 1 a 1 2 M 2 a 1 2 M 1 2 dot dot dot 1 പോർ 1 n ലേക്ക് തുടർന്ന് a 1n M 1n ഈ ഡിറ്റർമിനന്റ് പിന്നീട് കാണാം അത് നോക്കൂ ഇത് a 1 ആണ് ഞങ്ങളുടെ ലക്ഷ്യം M 1 1 M 1 2 M 1 2 എന്നിവ കണ്ടെത്തേണ്ടതുണ്ട് അവസാനത്തേത് M 1n ആണ് പ്രത്യേകിച്ചും അവസാന പദം നോക്കുക 1 പോർ 1 n a 1n M 1n അതിനാൽ നിങ്ങൾക്ക് M മാട്രിക്സ് m അറിയാമെങ്കിൽ M 1 1 M 1 2 വരെ M 1n വരെയുള്ള നിർണ്ണായകമായ ഈ M 1 നിർണ്ണയിക്കുക അപ്പോൾ എളുപ്പത്തിൽ പരിഹരിക്കാനാകും പിന്നെ അത് എങ്ങനെ ലഭിക്കും മാറ്റ് മൈനർ ഇത് യഥാർത്ഥത്തിൽ ഇതാണ് ഇവിടെ മൈനർ M ij ann 1 n 1 ആണ് i വരിയും j th നിരയും വെട്ടികൊണ്ട് മാട്രിക്സ് ഫോം നിർണ്ണയിക്കുന്നു അല്ലേ പിന്നീട് നിങ്ങൾ ith വരിയിലും jth നിരയിലും ഇത് വെട്ടിയതായ് കാണും ഉദാഹരണത്തിന് ഇത് n 1 n 1 മാട്രിക്സ് ആയിരിക്കും ഇത് മൈനർ ആണ് ഇപ്പോൾ ഇത് M I j ആണെന്ന് കരുതുക അത് I വരി 2 ന് തുല്യവും j 2 ന് തുല്യവുമാണ് അതിനർത്ഥം രണ്ടാമത്തെ വരിയും മൂന്നാമത്തെ നിരയും വലത് അതിനാൽ രണ്ടാമത്തെ വരിയുടെ ബാക്കി ഭാഗം നിങ്ങൾ മാറ്റിസ്ഥാപിക്കുകയാണെങ്കിൽ ഈ വരി കരുതുക ഇത് ഇല്ലാതായി Ith വരിയും jth നിരയും ഇല്ല അതിനാൽ അത് j എന്നത് 2 മൂന്നാമത്തെ നിരയ്ക്ക് തുല്യമാണ് അതിനാൽ ഈ 2 പോകുമ്പോൾ ബാക്കി ഘടകങ്ങൾ ഉണ്ടാകും അതനുസരിച്ച് അത് n 1 n 1 മാട്രിക്സ് ആയിരിക്കും അതിനാൽ ബാക്കി ഘടകങ്ങൾ എല്ലാം ഉണ്ടാകും ഇത് പൂർണ്ണമായും ഇല്ലാതാകില്ല പക്ഷ ഈ വശവും ഉണ്ടാകും ഇത് ഉണ്ടാകില്ല അതിനാൽ നിങ്ങൾ ഒഴിവാക്കേണ്ട ഈ വരികളുടെ നിരകൾ ബാക്കിയുള്ള മാട്രിക്സ് ഓർഡർ മൈനർ M മൈനർ n 1 n 1 ആയിരിക്കും കാരണം ഒരു വരിയും ഒരു നിരയും പൂർണ്ണമായും ഒഴിവാക്കപ്പെടും അതിനാൽ സമാനമായി ആദ്യ നിരയ്ക്കൊപ്പം വികസിപ്പിക്കുന്നതിലൂടെയും ഡെൽറ്റയുടെ മൂല്യം ലഭിക്കും ഈ ആദ്യ നിരയ്ക്കൊപ്പം നിങ്ങൾ ഇത് വിപുലീകരിക്കുകയാണെങ്കിൽ വരികളേക്കാൾ പകരം നിങ്ങൾ അത് കാണുന്നുവെങ്കിൽ അതും ഡെൽറ്റയുടെ മൂല്യം എന്ന് വിളിക്കുന്നതിനെ ലഭിക്കും അതിനാൽ നിങ്ങൾ ഇത് നിർമ്മിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഡെൽറ്റ a11 M 1 1 a21 M 21 ന് തുല്യമായിരിക്കും കാരണം നിരയിലേക്ക് നീങ്ങുന്നു അല്ലേ നിര വികസിപ്പിക്കുന്നതിലൂടെ a 1 1 M 1 1 തുടർന്ന് a 2 a 21 M 21 തുടർന്ന് a 2 1 M 2 1 വരെ 1 മുതൽ പോർ n 1 an1 Mn 1 വരെ ഞാൻ ഇത് വിശദീകരിക്കുന്ന സമയത്ത് ഇവിടെ ഇത് വരുന്നു 1 പോർ 1 n 1n ഇത് വികസിച്ചുകൊണ്ടിരിക്കുന്നു ആദ്യ വരിയിൽ വികസിപ്പിക്കുന്നതിനെയാണ് നിങ്ങൾ വിളിക്കുന്നത് എന്നാൽ ആദ്യ നിരയ്ക്കൊപ്പം ഇത് ലഭിക്കും അതിനാൽ ആദ്യ നിരയെ നിങ്ങൾ വിളിക്കുന്നതിനോടൊപ്പം രണ്ടാമത്തെ സമവാക്യവും ഉണ്ട് അതിനാൽ ഇത് a1 1 M 1 1 a 21 ആണ് a2 2 മാട്രിക്സിനായി a2 2 മാട്രിക്സ് ഡിറ്റർമിനന്റ് a1 1a 2 2 - a 1 2 a 21 ഇത് നിങ്ങൾക്കറിയാം a2 2 മാട്രിക്സിനായി ഇത് a 1 1 a 1 2 a 1 2 എന്ന് കരുതുക പരമാവധി 2 മുതൽ 2 വരെ പരിഹരിക്കുമെന്ന് ഞാൻ കരുതുന്നു 4 മുതൽ 4 വരെ ചിന്തിക്കില്ല കാരണം ഇത് എളുപ്പത്തിൽ പരിഹരിക്കാനാകും പക്ഷേ ഇത് കൂടുതൽ സമയം എടുക്കും പക്ഷേ 2 2 മാട്രിക്സ് മാത്രമേ പരിഹരിക്കുകയുള്ളൂ അതിനാൽ ഇത് ലളിതമായ ഡെൽറ്റയാണ് a 1 1 a 1 2 a 1 2 പിന്നെ a 21 a 2 2 a 2 2 പിന്നെ a 2 1 a 2 2 a 2 2 എന്നിവയ്ക്ക് തുല്യമാണ് ഇപ്പോൾ നിങ്ങൾ ഇത് വിപുലീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ a1 1 a21 a2 2 നിരയുടെ ദിശയിലാണ് ഇത് അവസാന ഫോർമുലയാണെന്ന് നോക്കൂ ഈ അവസാനത്തെ n ത് പദo കാണുകയാണെങ്കിൽ അത് 1 മുതൽ പോർ n 1 വരെ പിന്നെ an 1 മുതൽ Mn 1 വരെ ശരിയല്ലേ നിങ്ങൾ n ഇടുകയാണെങ്കിൽ 1 ന് തുല്യവും n 2 ന് തുല്യവുമാണ് നിങ്ങൾ n ഇട്ടാൽ 1 ന് തുല്യമാണെങ്കിൽ ഇത് ഇതായിരിക്കും ഈ ആദ്യ പദം അതിനാൽ അത് 1 ചതുരം പിന്നെ a1 1 M 1 1 അതുപോലെ നിങ്ങൾ n ഇട്ടാൽ 2 ന് തുല്യമാണെങ്കിൽ അത് 1 ക്യൂബ് അതിനാൽ പദം അപ്പോൾ വരും a 21 M 21 നിങ്ങൾ n ഇട്ടാൽ 2 ന് തുല്യമാണെങ്കിൽ അത് ഇതായിരിക്കും 1 മുതൽ പോർ 4 വരെ അത് തുടർന്ന് a 2 1 M 2 1 ആയിരിക്കും അതിനാൽ നിങ്ങൾ ഇത് വികസിപ്പിക്കുമ്പോൾ ഇത് ഇങ്ങനെയാണ് വരുന്നത് ആദ്യം a1 1 എന്ന് കരുതുക തുടർന്ന് 1 പോർ n 1 ലേക്ക് ഫോർമുല an m n 1 ഇത് കാണുക ഉദാഹരണത്തിന് എല്ലാം ഒന്നുതന്നെയായിരിക്കും അതായത് Mn 1 അപ്പോൾ നിങ്ങൾ an1 എഴുതുന്നു തുടർന്ന് 1 പോറിന് അതായത് n 1 ന് തുല്യമാണ് ഇപ്പോൾ നിങ്ങൾ അതിലേക്ക് നോക്കുകയാണെങ്കിൽ ann 1 ന് തുല്യമാണ് അതായത് a 1 1 അവിടെ n എന്നത് 1 ന് തുല്യമാണ് അതായത് ഇത് 1 ചതുരം അത് ആയിരിക്കും തുടർന്ന് ഈ പദം a 1 1 വരുന്നതും M 1 1 ഉം ആയിരിക്കും അതിനാൽ ith വരിയും M 1 1 ഉം ഇവിടെ i എന്നത് 1 ഉം j 1 ന് തുല്യവുമാണ് Ith വരിയും jth നിരയും നിങ്ങൾ ഇല്ലാതാക്കുന്നു അതിനാൽ ith വരി എന്നാൽ നിങ്ങൾ ഒഴിവാക്കുന്ന ആദ്യ വരി നിര എന്നാണ് അർത്ഥമാക്കുന്നത് അതിനാൽ ഇത് ആദ്യ വരിയാണ് ഇത് ആദ്യ നിരയാണ് ബാക്കിയുള്ളവ ഒഴിവാക്കുകയാണെങ്കിൽ a 2 2 a 2 2 a 2 2 a 2 2 so a 2 2 a 2 2 a 2 2 a 2 2 ആയിരിക്കും അതിനാൽ ഇത് ആദ്യത്തേതാണ് അതിനാൽ ഇത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ രണ്ടാമത്തേത് ഞാൻ രണ്ടാമത്തേതിലേക്ക് വരാം രണ്ടാമത്തേതിൽ ഇത് വീണ്ടും അതേ പദമാണ് അതായത് n 1 തുടർന്ന് an 1 M n 1 ഇപ്പോൾ ഈ സാഹചര്യത്തിൽ രണ്ടാമത്തെ പദം n 2 ന് തുല്യമാണ് അതിനർത്ഥം ഇത് 1 മുതൽ പോർ 2 വരെ പിന്നെ a21 തുടർന്ന് M 21 അതിനാൽ 1 മുതൽ പോർ 2 വരെ ഇത് അർത്ഥമാക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ 1 ക്യൂബ് അതിനാൽ ഇത് A 21 ആയി മാറും എന്താണ് M21 ഇവിടെ M I j i 2 ന് തുല്യവും j 1 ന് തുല്യവുമാണ് അതായത് നിങ്ങൾ രണ്ടാമത്തെ വരിയും ആദ്യ നിരയും അതിനാൽ രണ്ടാമത്തെ വരി അർത്ഥമാക്കുന്നത് ഇത് പോകും I എന്നത് 2 ന് തുല്യമാണ് അതായത് I വരി അതിനാൽ രണ്ടാമത്തെ ഒരു j 1 ആദ്യ നിരയ്ക്ക്തുല്യമാണ് അവിടെ എന്തായിരിക്കും A 1 2 a 1 2 a 1 2 a 1 2 a 2 2 a 2 2 a 2 2 a 2 2 ഇവിടെ ഉണ്ടാകും ഈ വഴി നിങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കും അതിനാൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ലേ അതുപോലെ അവസാനത്തേതും മനസ്സിലാക്കാൻ കഴിയും കാരണം n 2 ന് തുല്യമാണ് അതിനാൽ ഇത് a2 1 1 4 ആയിരിക്കും അതിനാൽ i 2 ന് തുല്യമാണ് അതായത് മൂന്നാം വരിയും ആദ്യ നിരയും അതിനാൽ മൂന്നാം വരിയും ആദ്യ നിരയും ഒഴിവാക്കപ്പെടും ഇത് മൂന്നാമത്തെ വരിയാണ് അതിനാൽ a 1 2 a 1 2 a 1 2 a 1 2 a 2 2 a 2 2 എന്നിവ ശേഷിക്കും അതിനാൽ ഈ വഴി നിങ്ങൾക്ക് കണ്ടെത്താനാകും ഇതൊരു 2 2 മാട്രിക്സാണ് അതിനാൽ ഇത് 2 2 എന്നതിനപ്പുറം പോകില്ല കാരണം ഇത് കൂടുതൽ സമയം എടുക്കും പക്ഷേ ഇത് എങ്ങനെ കണ്ടെത്താം എന്ന ഒരു രീതിയാണ് നിരയുടെ ഭാഗത്ത് ഞാൻ ഇത് വിശദീകരിച്ചു വരികളിലല്ല വരി തിരിച്ചും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് അതേ ഫലം ലഭിക്കും നിങ്ങൾ ഇവയെ ഗുണിച്ചാൽ നിങ്ങൾക്ക് ഡെൽറ്റ ലഭിക്കും അതിനാൽ മറ്റൊരു കാര്യം ഈ രീതി 2 2 മാട്രിക്സിനായി ശരിയാണ് ഇത് ഓർക്കുക ലളിതമായ രീതിയാണ് ഇത് 2 2 നിർണ്ണയിക്കാനുള്ള ലളിതമായ രീതി ആദ്യത്തെ 2 വരികൾ ആവർത്തിക്കുകയും പദങ്ങൾ ഡയഗണലായി ഗുണിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് മാട്രിക്സ് ഇത് വളരെ ലളിതമായ ഒരു കാര്യമാണ് പക്ഷേ ഇത് 2 2 മാട്രിക്സിൽ മാത്രം ശരിയാണെന്ന് ഓർമ്മിക്കുക 2 2 അല്ല 4 4 അല്ല പക്ഷേ ഇത് നിങ്ങൾക്ക് വളരെ ഉപയോഗപ്രദമാകും മാത്രമല്ല നിങ്ങൾക്ക് എത്ര വേഗത്തിൽ അത് നേടാനാകുമെന്ന് നിങ്ങൾ കാണും നിങ്ങൾ എന്തുചെയ്യും നിങ്ങൾക്ക് മനസിലാക്കാൻ വളരെ എളുപ്പമുള്ളപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് a 1 1 a 1 2 a 1 2 a 21 a 2 2 a 2 2 a 2 1 a 2 2 a 2 2 ഇതുവരെയും എങ്ങനെ ചെയാം എന്ന് ഞാൻ കണ്ടെത്തി ഈ ആദ്യ 2 വരി നിങ്ങൾ വീണ്ടും ആവർത്തിക്കു അത് a 1 1 a 1 2 അതായത് a 1 1 ഇത് a 1 1 a 1 2 a 1 2 a 21 a 2 2 a 2 2 a 21 a 2 2 നിങ്ങൾ ആവർത്തിച്ച് ഇതുപോലെയാക്കുക അതിനാൽ ആദ്യം 2 2 മാട്രിക്സ് ഇത് 2 2 മാട്രിക്സ് ആണ് തുടർന്ന് നിങ്ങൾ എന്തു ചെയ്യും നിങ്ങൾ ആദ്യത്തെ 2 വരികൾ a 1 1 ആവർത്തിക്കു ഇത്a 1 1 ഇത് a 1 1 a 1 2 a 1 2 a 21 a 2 2 a 2 2 നിങ്ങൾ ആവർത്തിക്കു നിങ്ങൾക്ക് എത്ര വേഗത്തിൽ അത് ലഭിക്കുമെന്ന് നിങ്ങൾ കാണും പിന്നെ നിങ്ങൾ എന്തു ചെയ്യും ഗുണിത ബീജഗണിത സംഖ്യയ്ക്കായി നിങ്ങൾ എന്തുചെയ്യും എന്നതിനർത്ഥം ഇത് a 1 1 a 2 2 a 2 2 ഇത് ചിഹ്നം എന്നാണ് അതിനാൽ a 1 1 a 2 2 a 2 2 ഇത് വരുന്നതെന്തും a 1 1 a 2 2 a 2 2 നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കാം ഇത് പ്രശ്നമല്ല പക്ഷേ നിങ്ങൾ എടുക്കുന്നതെന്തും അടയാളം എന്തെടുത്തലും അത് അടയാളം ആയിരിക്കണം പിന്നെ ഞാൻ എടുത്തതെല്ലാം a 21 a 2 2 പിന്നെ a12 ഇത് a 1 2 ആണ് അടയാളം ആണ് തുടർന്ന് a 2 1 പിന്നെ a 1 2 തുടർന്ന് a 2 2 ആയിരിക്കും ഇതിനെയാണ് നിങ്ങൾ ഇവയെല്ലാം ചിഹ്നം എന്ന് വിളിക്കുന്നത് ഞാൻ ഇത് അടയാളം ആക്കി പിനീട് ഈ സൈഡും അടയാളം എടുകാം അതിനാൽ ഈ ഘടകങ്ങൾ ആയിരിക്കുമെന്നാണ് അർത്ഥമാക്കുന്നത് ചിഹ്നം എന്തായിരിക്കണമെന്നത് പ്രശ്നമല്ല പിന്നെ നിങ്ങൾ a 1 1 എടുക്കുന്നു ഇത് a 1 2 a2 2 a 2 1 അതിനാൽ ഇത് a1 2 a 2 2 a 2 1 ആണ് ശരിയല്ലേ പിന്നെ ഇത് a 2 2 a 2 2 a 2 2 എന്നിട്ട് a1 1 എന്നിട്ട് ഇത് 2 2 a 2 2 ഉം ഇത് a1 1 ഉം ആണ് എന്നിട്ട് ഇത് മറ്റൊന്ന്a 2 2 പിന്നെ നിങ്ങൾ എന്താണ് 111 മുതൽ a 1 ലേക്ക് ഉം a21 ലേക്ക് ഉം വിളിക്കുക അതിനാൽ ഇതെല്ലാം ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതെന്തും നിർണ്ണായകമായിരിക്കും അല്ലേ അതിനാൽ ആദ്യ 2 വരികൾ പകർത്തുക ഈ സൈഡ് നിങ്ങൾ a1 1 എടുക്കുന്നു അത് ആണ് ഇതും ആണ് നിങ്ങൾ എടുക്കുന്ന ഈ സൈഡ് എന്നിവ ലളിതമാക്കുക നിങ്ങൾക്ക് നിർണ്ണായകത ലഭിക്കും ഇത് 2 2 മാട്രിക്സിൽ മാത്രം ശരിയാണ് ഒരിക്കലും സംഭവിക്കാത്ത മറ്റൊരു കാര്യത്തിനായി ശ്രമിക്കരുത് എന്നാൽ 2 2 മാട്രിക്സിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ മറ്റൊരു കാര്യം കണക്കുകൂട്ടുന്നതിനേക്കാൾ കണക്കുകൂട്ടാൻ എളുപ്പമാണ് ഇത് ലളിതമായ ഒരു പ്രക്രിയയാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് ഇതുപോലെയാക്കിയത് ഞാൻ പറഞ്ഞ രീതി നിങ്ങൾ മനസിലാക്കുന്നുവെങ്കിൽ അതേ കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട് ഇത് ഡെൽറ്റയാണ് അതേ കാര്യം ഇവിടെ എഴുതിയിരിക്കുന്നു അടുത്ത ഉദാഹരണം ഞങ്ങൾ തീർച്ചയായും പരിഹരിക്കും കാരണം ഇത് വൈദ്യുതത്തിന്റെ അടിസ്ഥാന അടിസ്ഥാനമാണ് അതിനാൽ നിരവധി സംഖ്യാ ഇനങ്ങൾ സംഖ്യകൾ പരിഹരിക്കേണ്ടതുണ്ട് ചിന്തകൾ കൂടുതലോ കുറവോ ആയിരിക്കുമെന്ന ആശയം നിങ്ങൾക്കറിയാമല്ലോ ശരിയല്ലേ അത്തരം കാര്യങ്ങൾക്ക് അൽപ്പം പരിശീലനം ആവശ്യമാണ് അതിനാൽ വ്യത്യസ്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ എടുക്കും ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ ഞാൻ എന്തൊക്കെ ഉണ്ടാക്കുന്നുവോ അത് ഒരു സ്കാൻ ചെയ്ത പകർപ്പാണ് നിങ്ങൾ എന്തെങ്കിലും തെറ്റ് അല്ലെങ്കിൽ കണക്കുകൂട്ടൽ തെറ്റ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ടെത്തിയാൽ ദയവായി എന്നെ അറിയിക്കുക അതിനാൽ എനിക്ക് എന്നെത്തന്നെ ശരിയാക്കാൻ കഴിയും കാരണം ധാരാളം പ്രശ്നങ്ങൾ ഉണ്ട് കണക്കുകൂട്ടലിലും മറ്റ് കാര്യങ്ങളിലും ഒരു തെറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് ശരിയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പക്ഷേ എവിടെയെങ്കിലും എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിരിക്കാം എനിക്കറിയില്ല പക്ഷെ നിങ്ങളിൽ നിന്ന് ഫീഡ്ബാക്ക് നേടാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ തെറ്റായ കണക്കുകൂട്ടലോ മറ്റോ നിങ്ങൾ കണ്ടെത്തിയാൽ ഞാൻ അത് ശരിയാക്കും എന്നാൽ പ്രശ്നത്തിന്റെ വൈവിധ്യങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കും ഞാൻ നിരവധി സ്ഥലങ്ങളിൽ നിന്ന് പ്രശ്നം ശേഖരിച്ച് ഇവിടെ ഇടാൻ ശ്രമിക്കുന്നു അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം ഞങ്ങളുടെ ചിന്തകൾ മറ്റ് ആശയങ്ങൾ പങ്കിടാൻ ശ്രമിക്കും ഒരു ലളിതമായ ഉദാഹരണം എടുക്കുക ചിത്രം 2 2 ലെ ഒരു സർക്യൂട്ടാണ് നോഡ് വോൾട്ടേജ് നിങ്ങൾ കാണുന്നത് നിർണ്ണയിക്കുക 2 ാം അധ്യായം അടയാളപ്പെടുത്തുന്നത് ചിലപ്പോൾ പിന്നീടുള്ള ഘട്ടത്തിൽ എടുക്കും എന്നാൽ നോഡ് വോൾട്ടേജുകൾ നിങ്ങൾ കണ്ടെത്തണമെന്ന് ഞങ്ങൾ നോക്കാം അതൊരു യൂണിറ്റ് സർക്യൂട്ട് ആണ് അതിനാൽ ഇത് നോഡ് 1 ആണ് ഇത് നോഡ് 2 ആണ് ഇത് റഫറൻസ് നോഡ് ഡാറ്റം നോഡ് ആണ് ഈ വോൾടേജ് V 0 0 ഇതാണ് ഡേറ്റം നോഡ് പുതിയ അസൈൻമെന്റുകൾ അല്ലെങ്കിൽ പരീക്ഷ നിങ്ങൾക്ക് ലഭിക്കുന്നതെന്തും അടയാളപ്പെടുത്തില്ല പക്ഷേ ഇത് v 0 0 ആണെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ ഇത് നോഡ് 1 ആണ് ഇത് നോഡ് 2 ആണ് അതിനർത്ഥം ഈ റഫറൻസ് നോഡുമായി ബന്ധപ്പെട്ട് ഇത് വോൾട്ടേജ് v 1 ആണ് ഇത് വോൾട്ടേജ് v 2 ഇതാണ് എന്റെ റഫറൻസ് നോഡ് നോഡ് വോൾട്ട് v കണ്ടെത്തണം v 1 നേടേണ്ടത് എത്രയ്ക്ക് തുല്യമാണ് V 2 എത്രമാത്രം തുല്യമാണ് v 1 എത്രമാത്രം തുല്യമാണ് v2 എത്രമാത്രം തുല്യമാണ് നിലവിലെ 2 ഉറവിടങ്ങളിൽ 2 5 5 വിശദാംശങ്ങളുണ്ട് അടുത്ത ഡയഗ്രാമിൽ ഞാൻ ഇത് ഉണ്ടാക്കി എന്നാൽ അതിനുമുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇതാണ് കാര്യം അതിനാൽ നോഡ് വോൾട്ടേജുകൾ എന്താണെന്ന് നിങ്ങൾ ചോദിച്ചാൽ അത് v 1 v 2 ആണെങ്കിൽ പോലും സർക്യൂട്ടിൽ അടയാളപ്പെടുത്തില്ല ഇത് v 1 ആണെന്നും ഇത് v 2 ആണെന്നും നിങ്ങൾ അനുമാനിക്കണം ഇതാണ് വിശദമായ സർക്യൂട്ട് അതിനാൽ ഇത് റഫറൻസ് നോഡ് ആണ് ഇത് മാർക്കർ o ആണ് v 0 എന്നതിന് തുല്യമാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇത് വോൾട്ടേജ് v 1 ആണ് ഇത് v 2 ആണ് ഇപ്പോൾ നോഡ് 1 ഇത് നോഡ് 1 ഉം ഇത് നോഡ് 2 ഉം ആണ് ഇവിടെ നിങ്ങൾ KCL പ്രയോഗിക്കണം ഇവിടെ നോഡ് 2 ൽ നിങ്ങൾ KCL പ്രയോഗിക്കണം അതിനാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത് നോക്കൂ 2 5 ഇത് നിലവിലെ ഉറവിടമാണ് 2 5 ആമ്പിയർ ഇൻഡിപെൻഡന്റ് കറന്റ് സോഴ്സ് ഇതും ഇൻഡിപെൻഡന്റ് കറന്റ് സോഴ്സ് ഈ കറന്റ് 2 5 ആമ്പിയർ നൽകുന്നു അതിനാൽ ഇത് ഇൻകമിംഗ് കറന്റാണ് അതിനാൽ തുല്യമാണ് വലത് i 2 i i 2 i 2 എന്നിവയ്ക്ക് തുല്യമാണ് ഇവ ഈ ടെർമിനൽ നോഡ് 1 ഈ നോഡ് 1 ഉപേക്ഷിക്കുന്നു അതിനാൽ ഇത് യഥാർത്ഥത്തിൽ i 2 i 2 ന് തുല്യമാണ് ശരി അതിനാൽ ഇത് യഥാർത്ഥത്തിൽ നോഡ് 1 ആണ് എന്നാൽ നിങ്ങൾ നോഡ് 2 നോഡ് 2 ലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും ഈ i 2 കറന്റ് യഥാർത്ഥത്തിൽ ഈ നോഡിലേക്ക് പ്രവേശിക്കുന്നു അതിനാൽ ഈ കറന്റ് നോഡിലേക്ക് പ്രവേശിക്കുന്നു അതിനാൽ ഇത് i 2 ആണ് ഈ 5 ആമ്പിയർ കറന്റും ഇവിടെയുണ്ട് ഇതാണ് നിലവിലെ സോഴ്സ് ഈ 5 ആമ്പിയർ കറന്റും നോഡ് 2 ലേക്ക് പ്രവേശിക്കുന്നു അതിനാൽ ഇത് i 2 5 ആയിരിക്കും ഈ 2 ഇൻകമിംഗ് കറന്റാണെങ്കിലും ഇവ നോഡിലേക്ക് പ്രവേശിക്കുകയും ഈ 2 പോയിന്റിനു തുല്യമാവുകയും ചെയ്യുന്നു ഇത് 2 5 ആമ്പിയർ കറന്റാണ് അതിനാൽ നോഡ് ഉപേക്ഷിക്കുന്നതായി ഞാൻ ഇവിടെ അടയാളപ്പെടുത്തുന്നു കാരണം ദിശ ഈ രീതിയിലാണ് നൽകുന്നത് 2 5 ന് തുല്യമാണ് കൂടാതെ വലതുവശത്ത് ഇത് i 1 ഇതും i 1 ആണ് ഈ 2 സമവാക്യങ്ങൾ ഇത് ഒരു സമവാക്യം i 2 5 2 5 i 1 ന് തുല്യമാണ് ഈ വശം 2 5 ആണ് ഇത് ഇൻകമിംഗ് കറന്റും 2 i 2 i 2 ആണോ എന്ന് 2 ഞാൻ ഒന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ലെന്ന് കരുതുന്നു കാരണം വളരെയധികം ഹ്രസ്വമാണ് വളരെയധികം ശാഖകളുണ്ട് അതിനാൽ ഈ പ്രഭാഷണത്തിനിടയിൽ ഇടയ്ക്കിടെ എനിക്കും എന്തെങ്കിലും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അതിനാൽ ഈ പ്രഭാഷണത്തിനിടെ ആകസ്മികമായി ഇത് നഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അറിയിക്കേണ്ടതാണ് ഇത് മനസ്സിലാക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനാൽ ആ നോഡ് 1 എഴുതിയത് 2 5 എന്നത് i 2 i 2 ന് തുല്യമാണെന്ന് i 2 ന് തുല്യമാണ് അതിനാൽ ഇത് അടയാളപ്പെടുത്താൻ എന്നെ അനുവദിക്കുക അതിനാൽ ഈ വോൾട്ടേജാണ് ഇതിനെ നിങ്ങൾ വിളിക്കുന്നത് i 2 എന്നും i 1 എന്നും എഴുതണം അതിനാൽ ഈ i 2 യഥാർത്ഥത്തിൽ നിങ്ങൾ ശരിയാണെങ്കിൽ i 2 ഈ വോൾട്ടേജുകൾ v 1 ആണ് ഈ വോൾട്ടേജ് v 2 ആണ് അതിനാൽ ഇത് v 1 v 2 ആണ് 8 കൊണ്ട് ഹരിച്ചാൽ ഇത് i 2 ആണ് ശരി അതിനാൽ ഈ കറന്റ് 1 മുതൽ 2 വരെ പ്രവഹിക്കുന്നു അതിനാൽ v 1 v 2 സമാനമായി ഇത് ഡാറ്റം നോഡ് O ആണ് ഈ റഫറൻസ് വോൾട്ടേജ് 0 ആണ് ശരി അതിനാൽ i 2 ഇവിടെ എഴുതുന്നതിന് തുല്യമാണ് i 2 ഇതിന് തുല്യമാണ് b 1 by 4 യഥാർത്ഥത്തിൽ b 1 0 by 4 അതായത് b 1 by 4 കാരണം ഈ 4 ഓം ഇവിടെ പ്രതിരോധിക്കുന്നു ഇത് v 1 v 0 എന്നാൽ v 0 0 ആണ് അതിനാൽ v 1 0 by 4 i 1 so i 1 ഞാൻ ഇവിടെ എഴുതുന്നത് i 1 ഇതിന് തുല്യമാണെന്ന് ഡേറ്റം നോഡ് റഫറൻസ് 0 അതിനാൽ ഇവിടെ വോൾട്ടേജാണ് v 2 അതിനാൽ ഇത് അടിസ്ഥാനപരമായി v 2 0 12 അതിനാൽ ഇത് യഥാർത്ഥത്തിൽ v 212 ആണ് ഇത് 1 അതിനാൽ i 2 നിങ്ങൾക്ക് ലഭിച്ചു i 1 നിങ്ങൾക്ക് ഉണ്ട് അതുപോലെ തന്നെ v 212 ഇവയെല്ലാം ആ KCL സമവാക്യങ്ങളിൽ ഉൾപ്പെടുത്തും അപ്പോൾ v 1 v 2 എന്നിവയുടെ അടിസ്ഥാനത്തിൽ സമവാക്യങ്ങൾ ലഭിക്കും അതിനാൽ ഇത് മനസ്സിലാക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനാൽ i 2 i 2 ഇവിടെ എഴുതുന്നു അതിനാൽ ഇത് i 2 ആണ് വിശദീകരിച്ചതെന്തും അതിനാൽ ലളിതവൽക്കരണത്തിന് ശേഷം ഈ സമവാക്യങ്ങൾ 2 v 1 v 2 20 ന് തുല്യമാണ് അതുപോലെ തന്നെ ഈ സമവാക്യവും വിശദീകരണ സമയത്ത് എഴുതിയിട്ടുണ്ട് കൂടാതെ i 2 v 1 v മുതൽ 8 വരെ തുല്യമാണ് കൂടാതെ i 1 b 212 ന് തുല്യമാണ് ഇതും നിങ്ങൾ എഴുതിയതാണ് അതിനാൽ ലളിതവൽക്കരണത്തിന് അത് ലഭിച്ചു 2 v 1 5 v 2 60 ന് തുല്യമാണ് ഇപ്പോൾ നിങ്ങൾ സമവാക്യം 1 ഉം സമവാക്യം 2 ഈ 2 ചോദ്യവും പരിഹരിക്കുന്നു നിങ്ങൾക്ക് ലഭിക്കും v 1 12 2 2 വോൾട്ടിന് തുല്യവും v 2 തുല്യവുമാണ് വോൾട്ട് അതിനാൽ ഇതാണ് ഉത്തരം പക്ഷേ ദയവായി ഇത് സ്വയം പരിഹരിക്കുക ഇവിടെ പ്രശ്നം ഈ നിലവിലെ ഉറവിടവും എത്രമാത്രം വിതരണം ചെയ്യുന്നുവെന്ന് പരാമർശിച്ചിട്ടില്ല അവ എത്രമാത്രം വിതരണം ചെയ്യുന്നുവെന്നത് ശരിയാണ് അതനുസരിച്ച് അത് കണ്ടെത്തിയേക്കാം നിലവിലെ 2 ഉറവിടങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം ഈ നിലവിലെ ഉറവിടം എത്രയാണ ഇത് നിങ്ങൾക്കുള്ള ഒരു വർക്ക് ആണ് വളരെ നന്ദി വീണ്ടും വരാം